ഈ സെഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ സെഷനിൽ ഞങ്ങൾ ഇന്റേഗ്രേഷൻ പരിശോധനയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഇന്റേഗ്രേഷൻ പരിശോധനയിലെ ബേസിക് എറർ ടാർഗെറ്റ് നെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിനായുള്ള എറർ ടാർഗെറ്റുകൾ ഇന്റർഫേസ് എററുകളാണെന്നും അവിടെ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ വിളിക്കുന്നുവെന്നും പരാമീറ്ററുകൾ ശരിയല്ല എന്ന അർത്ഥത്തിൽ കോളിംഗിൽ ഒരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞു ഒരു യൂണിറ്റ് എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിളിക്കുമ്പോൾ പ്രശ്നമുണ്ട് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് അത്തരം പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ലക്ഷ്യമിടുന്നു തുടർന്ന് ഞങ്ങൾ വിവിധ തരം ഇന്റേഗ്രേഷൻ ടെറ്റസിങുകൾ പരിശോധിച്ചു ഏറ്റവും ലളിതമായ ഇന്റേഗ്രേഷൻ പരിശോധനയാണ് ബിഗ് ബാങ് ടെസ്റ്റിംഗ് എന്ന് ഞങ്ങൾ പറഞ്ഞു ബിഗ് ബാങ് ടെസ്റ്റിംഗ് ഇൽ എല്ലാ മൊഡ്യൂളുകളിലേയും യൂണിറ്റുകളിലേയും എല്ലാ മൊഡ്യൂളുകളും ഒറ്റ ഘട്ടത്തിൽ ഞങ്ങൾ സംയോജിപ്പിക്കുന്നു എന്നാൽ ഒരു നോൺ ട്രിവിയൽ പ്രോഗ്രാമിനായി ആരും വലിയൊരു പരീക്ഷണം നടത്തുന്നില്ല ബഗുകൾ പരിഹരിക്കാൻ ബിഗ് ബാങ് ടെസ്റ്റിംഗ് ഇൽ ഇത് വളരെ ചെലവേറിയതാണെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ ടെസ്റ്റിംഗ് പ്രക്രിയ വളരെ ചെലവേറിയതായിത്തീരും എന്നാൽ മറ്റ് ബദലുകൾ എന്തൊക്കെയാണ് അപ്പ് ടെസ്റ്റിംഗ് ടോപ്പ് ഡൌൺ ടെസ്റ്റിംഗ് മിക്സഡ് അല്ലെങ്കിൽ സാൻഡ്വിച്ച് ടെസ്റ്റിംഗ് എന്നിവയാണ് ഇതരമാർഗങ്ങൾ നമുക്ക് ബോട്ടം അപ്പ് ടെസ്റ്റിങ് നോക്കാം ബോട്ടം അപ്പ് ടെസ്റ്റിങ് ഇൽ ഡിസൈനിലെ ഏറ്റവും താഴത്തെ ലേയർ ലെ യൂണിറ്റ് അല്ലെങ്കിൽ മൊഡ്യൂൾ ഞങ്ങൾ എടുക്കുന്നു എന്നിട്ട് അതിനെ ഒരു മൊഡ്യൂളുമായി സമന്വയിപ്പിക്കുന്നു അത് ഒരേ ലെവെലിൽ മൊഡ്യൂളുകൾ ലഭ്യമല്ല എല്ലാ മൊഡ്യൂളുകളും സംയോജിപ്പിക്കുന്നതുവരെ ഞങ്ങൾ മൊഡ്യൂളുമായി ഉയർന്ന തലത്തിൽ സംയോജിപ്പിക്കും അതിനാൽ ഒരു സമയത്ത് ഞങ്ങൾ ഒരു മൊഡ്യൂൾ മാത്രമേ സംയോജിപ്പിക്കൂ ഈ ബോട്ടം അപ്പ് ടെസ്റ്റിംഗിന്റെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് ഞങ്ങൾ ഇന്റേഗ്രേഷൻ സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ ഡ്രൈവറുകൾ എഴുതേണ്ടതുണ്ട് കാരണം ഞങ്ങൾ താഴെ ലെവലിൽ ഉള്ള മൊഡ്യൂളുകൾ പരീക്ഷിക്കുന്നതിനാൽ ചില സോഫ്റ്റ്വെയറുകൾ എഴുതേണ്ടതുണ്ട് ഈ മൊഡ്യൂളുകൾ അതിനാൽ ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് നടത്താൻ ടെസ്റ്റർ ഈ ഡ്രൈവറുകൾ എഴുതേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ടെസ്റ്ററിന് ശരിക്കും സിസ്റ്റം ലെവൽ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അത് വലിയ കേസുകളാണ് ഇതിന് അർത്ഥവത്തായ ടെസ്റ്റ് കേസുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല വളരെ ലളിതമായ ചില ടെസ്റ്റ് കേസുകൾ മാത്രം സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഒരു യൂസർ ഇന്റർഫേസിൽ നിന്നുള്ള ഡാറ്റ ഇൻപുട്ട് ശരിയായി ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു യൂസർ ഇന്റർഫേസിൽ എഴുതിയ ഡാറ്റ ശരിയായി കാണിക്കുന്നുണ്ടോ അങ്ങനെ വളരെ ലളിതമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ ഡയഗ്രാമിൽ നിന്ന് ബോട്ടം അപ്പ് ടെസ്റ്റിങ് രീതികൾ കാണാവുന്നതാണ് ഏറ്റവും താഴെയുള്ള മൊഡ്യൂളിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ആ ലെയറിൽ മറ്റേതെങ്കിലും മൊഡ്യൂൾ ഇല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ലെവൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു തുടർന്ന് ഒരേ ലെയറിലെ മറ്റൊരു മൊഡ്യൂളുമായി ഞങ്ങൾ സംയോജിപ്പിക്കുന്നു മൂന്ന് മൊഡ്യൂളുകൾ ഒരുമിച്ച് സംയോജിപ്പിക്കുന്നു തുടർന്ന് അവർ വിജയകരമായി പ്രവർത്തിച്ചതിനുശേഷം അവ പരീക്ഷിക്കപ്പെടുകയും ഏതെങ്കിലും ബഗുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ അതേ ലെയറിൽ ഒരു മൊഡ്യൂൾ കൂടി എടുക്കുന്നു വീണ്ടും സംയോജിപ്പിച്ച് പരിശോധിക്കുന്നു നിലവിലുള്ള ഏതെങ്കിലും ബഗുകൾ പരിഹരിക്കുന്നു തുടർന്ന് എല്ലാ മൊഡ്യൂളുകളും സംയോജിപ്പിക്കുന്നതുവരെ ഒന്നുകൂടി എടുക്കുന്നു തുടർന്ന് ഉയർന്ന ലെവെലും അങ്ങനെ അതിനാൽ ഇതാണ് ബോട്ടം അപ്പ് ടെസ്റ്റിംഗിന്റെ സാരാംശം എന്നാൽ ഇത് ഇൻക്രിമെന്റ്റൽ ബോട്ടം അപ്പ് ടെസ്റ്റിങ് ആണ് ചില മൊഡ്യൂളുകൾ ശരിക്കും നിസ്സാരമാണെങ്കിൽ നമുക്ക് ഒരു ഘട്ടത്തിൽ രണ്ട് മൊഡ്യൂളുകൾ സംയോജിപ്പിക്കാം ബോട്ടം അപ്പ് ടെസ്റ്റിങ് ന്റ്റെ ഒരു ഉദാഹരണമാണിത് അതിനാൽ ആദ്യം ഞങ്ങൾ M 5 M 8 മായി സമന്വയിപ്പിക്കുന്നു M 5 എന്നതിന് ഞങ്ങൾ ഒരു ഡ്രൈവർ എഴുതുന്നു കാരണം M 8 വിളിക്കുന്നത് M 5 ആണ് എന്നാൽ ആരാണ് M 5 എന്ന് വിളിക്കുന്നത് കാരണം M 2 M 5 എന്ന് വിളിക്കുന്നു പക്ഷേ ഞങ്ങൾ M 2 സംയോജിപ്പിച്ചിട്ടില്ല അതിനാൽ ഞങ്ങൾ M 5 എന്ന് വിളിക്കുന്ന ഡ്രൈവർ സോഫ്റ്റ്വെയർ എഴുതേണ്ടതുണ്ട് ഈ ഡ്രൈവർ സോഫ്റ്റ്വെയർ മുഖേന M 5 M 8 ഇവ രണ്ടും ഞങ്ങൾ പരിശോധിക്കും M 6 M 5 M 8 എന്നിവയുമായി സംയോജിപ്പിക്കുന്നു തുടർന്ന് ഞങ്ങൾക്ക് M5 M 6 എന്നിവയ്ക്ക് ഡ്രൈവറുകൾ ആവശ്യമാണ് കാരണം ചില സോഫ്റ്റ്വെയർ M 5 M 6 എന്നിവ വിളിക്കണം ഞങ്ങൾ ഇതുവരെ M 2 സംയോജിപ്പിച്ചിട്ടില്ല അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ഡ്രൈവറുകൾ ആവശ്യമാണ് എന്നിട്ട് ഞങ്ങൾ ഒരെണ്ണം കൂടി സംയോജിപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് ഡ്രൈവറുകൾ ആവശ്യമാണ് എന്നിട്ട് ഇവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ബഗുകൾ പരിഹരിക്കുന്നു ഇപ്പോൾ നമുക്ക് ടോപ്പ് ഡൌൺ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നോക്കാം അതിനാൽ ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ മൊഡ്യൂളുകളിൽ ആരംഭിക്കുന്നു എന്നിട്ട് ഞങ്ങൾ ഒരു ലോവർ ലെവൽ മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് മൊഡ്യൂൾ എടുത്ത് അവയെ സംയോജിപ്പിക്കുന്നു സബോർഡിനേറ്റ് മൊഡ്യൂൾ വളരെ ലളിതമാണെങ്കിൽ മൊഡ്യൂളിൽ ഏതാണ്ട് ട്രിവിയൽ ആണെങ്കിൽ നമുക്ക് രണ്ട് മൊഡ്യൂളുകളും ഒരു സ്റ്റെപ്പും എടുക്കാം ഈ ടോപ്പ് ലെവൽ മൊഡ്യൂൾ സംയോജനം പരീക്ഷിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഉടനടി സബോർഡിനേറ്റ് മൊഡ്യൂളും മറ്റും ചേർക്കുന്നു മൊഡ്യൂളുകൾ സംയോജിപ്പിച്ചിരിക്കുന്ന ക്രമം ഡയഗ്രാമാറ്റിക്കലായി കാണിക്കണമെങ്കിൽ ഞങ്ങൾ ഏറ്റവും മുകളിൽ നിന്ന് ആരംഭിച്ച് ഒരു സബോർഡിനേറ്റ് മൊഡ്യൂൾ M 1 M 2 മായി സംയോജിപ്പിക്കുകയും തുടർന്ന് M 1 M 2 M 3 എന്നിവ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ നമ്മൾ സ്റ്റബ്സ് എഴുതേണ്ടിവരുമെന്ന് ഓർക്കുക ബോട്ടം അപ്പ് ടെസ്റ്റിങ് ഇൽ എന്ന പോലെ ഞങ്ങൾക്ക് ഡ്രൈവറുകൾ ആവശ്യമാണ് ടോപ്പ് ഡൌൺ ടെസ്റ്റിങ് ഇൽ നമുക്ക് സ്റ്റബുകൾ ആവശ്യമാണ് കാരണം ഇവിടെ നിരീക്ഷിക്കുക M 2 വിളിക്കുന്നത് M 5 ഉം M 6 ഉം ആണ് എന്നാൽ ഞങ്ങൾ M 5 ഉം M 6 ഉം സംയോജിപ്പിച്ചിട്ടില്ല ഇത് M 5 M 6 പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ചെറിയ ടോയ് സോഫ്റ്റ്വെയർ എഴുതേണ്ടതുണ്ട് എന്നാൽ ചില ഡമ്മി പ്രവർത്തനങ്ങളെങ്കിലും ഒരു ടേബിൾ ലുക്കപ്പിലൂടെ ആയിരിക്കാം M 5 ഒരു ടേബിൾ ന്റ്റെ രൂപത്തിൽ കണക്കുകൂട്ടുന്ന ഫലങ്ങൾ എന്താണെന്ന് ഞങ്ങൾ സംഭരിച്ചിട്ടുണ്ട് ആ പാരാമീറ്റർ നൽകുമ്പോൾ ഞങ്ങൾ ടേബിൾ നോക്കി ആ മൂല്യം തിരികെ നൽകുന്നു അതാണ് സ്റ്റബ് ന്റ്റെ ഫംഗ്ഷൻ അതിനാൽ M 1 M 2 എന്നിവയുമായി സംയോജിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് സ്റ്റബുകൾ ആവശ്യമാണ് തുടർന്ന് M 1 M 2 M 3 എന്നിവയുമായി സംയോജിപ്പിക്കുന്നു തുടർന്ന് ഞങ്ങൾ M 1 M 2 M 3 എന്നിവ M 4 ഉം ടെസ്റ്റും സംയോജിപ്പിച്ച് ഇവിടെ നമുക്ക് നാല് സ്റ്റബുകൾ ആവശ്യമാണെന്ന് കാണാം ഒരിക്കൽ ഞങ്ങൾ ഇത് പരീക്ഷിച്ചു അത് ശരിയായി പ്രവർത്തിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഈ മൊഡ്യൂൾ M 7 മായി സംയോജിപ്പിക്കുന്നു തുടർന്ന് ഈ മൊഡ്യൂൾ ഉള്ളതിനാൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ മൂന്ന് സ്റ്റബുകൾ ആവശ്യമാണ് അതിനാൽ ഞങ്ങൾക്ക് ഒരു സ്റ്റബ് ആവശ്യമില്ല ഇതിന് ഞങ്ങൾക്ക് ഒരു സ്റ്റബ് ആവശ്യമാണ് ഇതും ഇതും അതിനാൽ ഞങ്ങൾക്ക് മൂന്ന് സ്റ്റബുകൾ ആവശ്യമാണ് അടുത്തതായി ഞങ്ങൾ ഈ മൊഡ്യൂൾ ഇവിടെ എടുക്കുന്നു അതിനാൽ മൊഡ്യൂളുകൾ പൂർണ്ണമായി സംയോജിപ്പിക്കുന്നതുവരെ ഞങ്ങൾക്ക് രണ്ട് സ്റ്റബുകൾ മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ ആദ്യം M 1 M 2 എന്നിവയുമായി സംയോജിപ്പിക്കണം M 1 M 2 എന്നിവയ്ക്ക് സ്റ്റബ് വേണം M3 M4 M5 M6 എന്നിവയ്ക്കും സ്റ്റബ് വേണം M1 M2 ആയി സംയോജിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നാല് സ്റ്റബ്സ് ആവശ്യമാണ് കാരണം M 1 കൂടാതെ M 3 M 4 എന്നിവയും M 2 M 5 M 6 എന്നിവയും വിളിക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾക്ക് നാല് സ്റ്റബുകൾ ആവശ്യമാണ് അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ M 1 M 2 M 3 എന്നിവ സംയോജിപ്പിക്കുകയും ഞങ്ങൾക്ക് മൂന്ന് സ്റ്റബുകൾ ആവശ്യമാണ് M 4 M 5 M 6 അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ M 1 M 2 M 3 M 4 എന്നിവ സംയോജിപ്പിക്കുന്നു ഇവിടെ ഞങ്ങൾ M 5 M 6 M 7 M 8 എന്നിങ്ങനെയുള്ള നാല് സ്റ്റബുകൾ ആവശ്യമാണ് എന്നിട്ട് ഞങ്ങൾ അടുത്തതായി ഈ മൊഡ്യൂൾ എടുക്കും തുടർന്ന് അടുത്തത് ഇത് അങ്ങനെ അതിനാൽ ഇത് ടോപ്പ് ഡൌൺ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ് ടോപ്പ് ഡൌൺ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിന്റെ ഒരു ഗുണം ടെസ്റ്റ് കേസുകൾ അർത്ഥവത്തായ യൂസ് കേസുകളാണ് കാരണം ഞങ്ങൾ ഇവിടെ ടോപ്പ് ലെവൽ ഫംഗ്ഷണാലിറ്റി പരിശോധിക്കുന്നു കൂടാതെ കൂടുതൽ കൂടുതൽ മൊഡ്യൂളുകൾ സംയോജിപ്പിക്കുമ്പോൾ അതേ ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നു അതിനാൽ താഴെയുള്ള ലെവൽ മൊഡ്യൂളുകൾ ഞങ്ങൾ പരീക്ഷിക്കുന്നുവെന്ന് നേരത്തെ ഓർക്കുക ഇവ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാൻ ഞങ്ങൾക്ക് വ്യത്യസ്ത തരം ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് എന്നാൽ ഇവിടെ ഒരേ ടെസ്റ്റ് കേസിൽ ഞങ്ങൾ പുതിയ മൊഡ്യൂളുകൾ ചേർക്കുമ്പോൾ പ്രവർത്തിപ്പിക്കുന്നത് തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു അതിനാൽ ടോപ്പ് ഡൌൺ ടെസ്റ്റിങ്ന് ഇത് പ്രയോജനകരമാണ് അതിനാൽ ടെസ്റ്റ് കേസുകൾ സംയോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഉപയോഗിക്കുന്നു ബഗ്ഗുകൾ മുകളിലത്തെ മൊഡ്യൂളിലാണെങ്കിൽ ടോപ്പ് ഡൌൺ ഇന്റേഗ്രേഷൻ പരിശോധനയും പ്രയോജനകരമാണ് കാരണം ബഗ്ഗുകൾ താഴത്തെ നിലയിലുള്ള മൊഡ്യൂളിലാണെങ്കിൽ കാലക്രമേണ നമുക്ക് നിരവധി മൊഡ്യൂളുകൾ ഒരുമിച്ച് സംയോജിപ്പിക്കുകയും എറർ ലോക്കലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും അതേസമയം ബഗുകൾ താഴ്ന്ന നിലയിലുള്ള മൊഡ്യൂളുകളിലാണെങ്കിൽ ബോട്ടം അപ്പ് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് കൂടുതൽ പ്രയോജനകരമായിരിക്കും പോരായ്മ എന്തെന്നാൽ ലോ ലെവൽ മൊഡ്യൂളുകൾ IO ആയതിനാൽ ഞങ്ങൾ അത് തുടക്കത്തിൽ സംയോജിപ്പിക്കുന്നില്ല അതിനാൽ അർത്ഥവത്തായ സിസ്റ്റം പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് ആരംഭിക്കാൻ കഴിയില്ല കൂടാതെ സ്റ്റോപ്പ് ഡിസൈൻ ഒരു പ്രശ്നമായി മാറും കാരണം ഒരു നോൺ ട്രിവിയൽ പ്രോഗ്രാമിനാണെങ്കിൽ ഞങ്ങൾ ടോപ്പ് ലെവൽ മൊഡ്യൂളുകൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ താഴേക്കുള്ള സ്റ്റബുകൾ എഴുതുന്നത് ബുദ്ധിമുട്ടായിരിക്കും മറ്റൊരു ബദൽ ഒരു മിക്സഡ് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് ഇത് സാൻഡ്വിച്ച്ഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നു അതിനാൽ ടോപ്പ് ഡൌൺ ഉം ബോട്ടം അപ്പ് സമീപനങ്ങളും നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ സാധാരണയായി എഴുതുന്നത് ഇന്റേഗ്രേറ്റ് ചെയ്യുന്നതിന് ചുരുങ്ങിയ സ്റ്റബുകളും ഡ്രൈവറുകളും എഴുതേണ്ടതുമാണ് അതിനാൽ മിക്സഡ് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് വളരെ ജനപ്രിയമാണ് ഈ സാൻഡ്വിച്ച് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മിക്സഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ നമുക്ക് ഇവ മൂന്നും സമന്വയിപ്പിക്കാം അതിനാൽ എഴുതേണ്ട സ്റ്റബുകളുടെയും ഡ്രൈവറുകളുടെയും എണ്ണം സാൻഡ്വിച്ച്ഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ടെക്നിക് വഴി ഗണ്യമായി കുറയ്ക്കാനാകും അതിനാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞങ്ങൾ ടോപ്പ് ഡൌൺ സമീപനമാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ മൊഡ്യൂൾ തയ്യാറാകുന്നതുവരെ നമുക്ക് ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് തുടങ്ങാൻ കഴിയില്ല എന്നതാണ് അതിനാൽ പൂർണ്ണമായും ടോപ്പ് ഡൌൺ സമീപനത്തിൽ താഴെയുള്ള ലെവലുകൾ ലഭ്യമാണെങ്കിലും നമുക്ക് ഒരു പ്യൂർ ടോപ്പ് ഡൌൺ ടെസ്റ്റിംഗ് നടത്താൻ കഴിയുമെങ്കിലും മുകളിലെ മൊഡ്യൂളുകൾ തയ്യാറാകുന്നതുവരെ ഞങ്ങളുടെ ടെസ്റ്റിംഗ് കാത്തിരിക്കേണ്ടതുണ്ട് അതുപോലെ ഒരു ബോട്ടം അപ്പ് സമീപനത്തിൽ എല്ലാ ബോട്ടം ലെവൽ മൊഡ്യൂളുകളും തയ്യാറാകുന്നതുവരെ ഞങ്ങളുടെ ഇന്റേഗ്രേഷൻ ടെസ്റ്റിങ് ആരംഭിക്കാനാകില്ല അതിനാൽ മിക്സഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിനോ സാൻഡ്വിച്ച്ഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിനോ ഉള്ള മറ്റൊരു നേട്ടം ചില മൊഡ്യൂളുകൾ ലഭ്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ടെസ്റ്റിങ് ആരംഭിക്കാം എന്നതാണ് ഇപ്പോൾ നമുക്ക് സിസ്റ്റം ടെസ്റ്റിംഗ് നോക്കാം സിസ്റ്റം ടെസ്റ്റിംഗ് ഒരു വാലിഡേഷൻ ടെക്നിക് ആണെന്ന് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മറ്റ് തരത്തിലുള്ള പരിശോധനകൾ യഥാർത്ഥത്തിൽ വേരീഫിക്കേഷൻ ടെക്നികുകൾ ആണ് അതിനാൽ ഇവിടെ സിസ്റ്റം ടെസ്റ്റിംഗിൽ അതിന്റെ ആവശ്യകതകൾക്ക് ആയി പൂർണ്ണമായി ഇന്റേഗ്രേറ്റ് ചെയ്തതും പൂർണ്ണമായി ഡെവലപ് ചെയ്തതുമായ ഒരു സംവിധാനത്തെ ഞങ്ങൾ വാലിഡേറ്റ് ചെയ്യുന്നു അതിനാൽ ടെസ്റ്റ് കേസുകൾ റിക്വയർമെന്റ് ഡോക്യുമെന്റ് നോക്കിയാണ് എഴുതുന്നത് തുടർന്ന് അവ പൂർണമായി വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ടെസ്റ്റ് ചെയ്യുന്നു ഇത് ഈ സോഫ്റ്റ്വെയർ ആവശ്യമുള്ളത് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന് വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മൂന്ന് പ്രധാന തരം സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട് ഒന്ന് ആൽഫ ടെസ്റ്റിംഗ് മറ്റൊന്ന് ബീറ്റ ടെസ്റ്റിംഗ് മൂന്നാമത്തേത് ആക്സപ്പ്ടെൻസ് ടെസ്റ്റിങ് ഇവ മൂന്നും സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് എന്നാൽ പേരുകൾ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ആരാണ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ച് ഞങ്ങൾ അതിനെ ആൽഫ ടെസ്റ്റിംഗ് ബീറ്റ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ആക്ക്സെപറ്റെൻസ് ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തുന്നത് ഡെവലപ് ചെയ്യുന്ന സംഘടനയോ ഡെവലപ്പിങ് സംഘമോ ആണെങ്കിൽ ഞങ്ങൾ അതിനെ ആൽഫാ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു ഒരു സൌഹൃദ സംഘടനയാണ് ടെസ്റ്റിംഗ് നടത്തുന്നതെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനും റിപ്പോർട്ട് ചെയ്യാനും അവരോട് ആവശ്യപ്പെടുന്നു എങ്കിൽ ബീറ്റ ടെസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്നു സോഫ്റ്റ്വെയർ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ യൂസർ സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തുന്ന സിസ്റ്റം ടെസ്റ്റിംഗാണ് ആക്ക്സെപറ്റെൻസ് ടെസ്റ്റിങ് അതിനാൽ ഇവ മൂന്നും സിസ്റ്റം ടെസ്റ്റിംഗാണ് ആരാണ് ടെസ്റ്റിങ് നടത്തുന്നത് എന്നതിനെ ആശ്രയിച്ച് ഞങ്ങൾ അതിനെ ആൽഫ ടെസ്റ്റിംഗ് ബീറ്റ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ആക്സപ്പ്ടെൻസ് ടെസ്റ്റിങ് എന്ന് വിളിക്കുന്നു ആൽഫാ ടെസ്റ്റിംഗിൽ ഡെവലപ്പിങ് സംഘടനയ്ക്കുള്ളിലാണ് ടെസ്റ്റിങ് നടത്തുന്നത് എന്നാൽ പിന്നീട് ടെസ്റ്റ് കേസുകൾ പ്രധാനമായും SRS ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഒരു സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് ബീറ്റ ടെസ്റ്റിങ്ൽ തിരഞ്ഞെടുത്ത ഒരു കൂട്ടം സൌഹൃദ ഉപഭോക്താക്കളാണ് ഇത് പരീക്ഷിക്കുന്നത് അതിനാൽ സോഫ്റ്റ്വെയർ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിനുമുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് പരിശോധിക്കുന്നതിനായി ഒരു കൂട്ടം സൌഹൃദ സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട് ഉപഭോക്താവിന് സോഫ്റ്റ്വെയർ നൽകുകയും ഉപഭോക്താവ് സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തുകയും സോഫ്റ്റ്വെയർ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ആക്സപ്പ്ടെൻസ് ടെസ്റ്റിങ് ആണ് അവസാനത്തേത് ആൽഫ ടെസ്റ്റിംഗ് ബീറ്റ ടെസ്റ്റിംഗ് ആക്സപ്പ്ടെൻസ് ടെസ്റ്റിങ് എന്നീ മൂന്ന് തരം സിസ്റ്റങ്ങളിലും ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റിക്വയർമെന്റ് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണയായി സിസ്റ്റം ടെസ്റ്റിങ് നടത്താൻ സോഴ്സ് കോഡ് നോക്കേണ്ടതില്ല ഇപ്പോൾ വരുന്ന അടുത്ത ചോദ്യം നമുക്ക് സിസ്റ്റം ടെസ്റ്റിംഗ് നടത്തണമെങ്കിൽ നമ്മൾ ഏതുതരം പരിശോധനയാണ് ചെയ്യേണ്ടത് ടെസ്റ്റുകളുടെ രണ്ട് പ്രധാന വിഭാഗങ്ങളുണ്ട് ഒന്നിനെ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് എന്നും മറ്റേതിനെ പെർഫോമൻസ് ടെസ്റ്റ് എന്നും വിളിക്കുന്നു അതിനാൽ ഈ ടെസ്റ്റുകളെല്ലാം പ്രവർത്തനക്ഷമതയും പ്രകടന പരിശോധനകളും റിക്വയർമെന്റ് ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ഫംഗ്ഷനൽ റിക്വയർമെന്റ് അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത് അതിനാൽ അവിടെ ഉയർന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നോ വലിയ കേസുകൾ എന്താണെന്നും സാഹചര്യങ്ങൾ എന്താണെന്നും ഞങ്ങൾ കണ്ടെത്തുന്നു തുടർന്ന് ഞങ്ങൾ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റിങ് നടത്തുന്നു അവ അടിസ്ഥാനപരമായി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് കേസുകളാണ് കാരണം സിസ്റ്റം ടെസ്റ്റിംഗ് സമയത്ത് ഞങ്ങൾക്ക് സോഴ്സ് കോഡിലേക്ക് ആക്സസ് ഇല്ല നിരവധി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റ് ടെക്നിക്കുകൾ ഞങ്ങൾ കണ്ടു ഇക്വവാലെൻസ് പാർട്ടീഷനിങ് ബൌണ്ടറി വാല്യൂ റോബസ്റ്റനെസ്സ് ടെസ്റ്റിങ് തുടങ്ങിയവ അതിനാൽ സിസ്റ്റം ടെസ്റ്റിംഗ് സമയത്ത് നടത്തുന്ന വ്യത്യസ്ത ഫംഗ്ഷനാലിറ്റി പരിശോധനകൾ ഇവയാണ് സോഫ്റ്റ്വെയർ വിജയകരമായി വിജയിച്ചുകഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രവർത്തനപരമായി ശരിയാണെന്ന് ഞങ്ങൾ പറയും തുടർന്ന് ഞങ്ങൾ പെർഫോമൻസ് ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് ഒരു റിക്വയർമെന്റ് രേഖയിലെ നോൺ ഫംഗ്ഷണൽ ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയാണ് പേർഫോമെൻസ് പരിശോധനകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു റിക്വയർമെന്റ് രേഖയിൽ രണ്ട് സുപ്രധാന വിഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒന്ന് വിവിധ ഫംഗ്ഷണൽ റിക്വയർമെന്റ് കൈകാര്യം ചെയ്യുന്നു മറ്റൊന്ന് നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് കൈകാര്യം ചെയ്യുന്നു നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാത്തവയാണ് എന്നാൽ പിന്നെ വിശ്വാസ്യത എന്തായിരിക്കണം വൈദ്യുതി തകരാറുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കണം എത്ര ഡാറ്റ ഇനങ്ങൾ നൽകാം എന്നിങ്ങനെയുള്ള ഫലങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും പ്രതികരണ സമയം എന്താണ് തുടങ്ങിയവ അതിനാൽ ഇവ പേർഫോമെൻസ് വശങ്ങളാണ് അതിനാൽ SRS ഡോക്യുമെന്റിൽ ഉള്ള നോൺ ഫംഗ്ഷണൽ ആയ ആവശ്യകതകളെ ആശ്രയിച്ച് ഞങ്ങൾക്ക് ധാരാളം ടെസ്റ്റ് കേസുകൾ ഉണ്ടാകാം നമുക്ക് സ്ട്രെസ് ടെസ്റ്റുകൾ വോളിയം ടെസ്റ്റുകൾ കോൺഫിഗറേഷൻ ടെസ്റ്റുകൾ കോംപാറ്റിബിളിറ്റി ടെസ്റ്റുകൾ സെക്യൂരിറ്റി ടെസ്റ്റുകൾ ലോഡ് ടെസ്റ്റ് റിക്കവറി ടെസ്റ്റുകൾ മെയിന്റനൻസ് ടെസ്റ്റുകൾ ഡോക്യുമെന്റേഷൻ ടെസ്റ്റുകൾ യൂസബിലിറ്റി ടെസ്റ്റുകൾ എൻവയോൺമെന്റ്റൽ ടെസ്റ്റുകൾ എന്നിവ നടത്താം ഇപ്പോൾ ഈ വ്യത്യസ്ത തരം പേർഫോമെൻസ് ടെസ്റ്റ്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്ട്രെസ് ടെസ്റ്റ് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇത് ഒരു ലോഡ് ടെസ്റ്റിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു വോളിയം ടെസ്റ്റിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു റിക്കവറി ടെസ്റ്റ് സമയത്ത് ഞങ്ങൾ എന്തുചെയ്യും തുടങ്ങിയവ സ്ട്രെസ് ടെസ്റ്റ് നെ എൻഡ്യൂറെൻസ് ടെസ്റ്റിങ് എന്നും വിളിക്കുന്നു അതിനാൽ SRS ഡോക്യുമെന്റിൽ സാധാരണയായി വ്യക്തമാക്കാത്ത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ സോഫ്റ്റ്വെയർ പരിശോധിക്കുന്നു ഞങ്ങൾക്ക് 5 ഉപയോക്താക്കൾക്ക് തൃപ്തികരമായി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്ന് SRS രേഖ വ്യക്തമാക്കുന്നുവെങ്കിൽ 6 ഉപയോക്താക്കൾ ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു സോഫ്റ്റ്വെയർ തകരാറിലാകുമോ അല്ലെങ്കിൽ അത് ഡീഗ്രേഡ് ആവുന്നുണ്ടോ 6 ഉപയോക്താക്കളുമായി ഇത് ഡീഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെസ് ടെസ്റ്റ്ൽ വിജയിക്കും പക്ഷേ അത് തകർന്നാൽ അത് ശരിയല്ല അതുപോലെ ജോലിയുടെ വലുപ്പം എന്തെങ്കിലും വ്യക്തമാക്കിയാൽ ഞങ്ങൾ അൽപ്പം വലിയ ജോലിയുടെ വലുപ്പം നൽകിയാൽ സോഫ്റ്റ്വെയർ നിർത്താതെ പ്രവർത്തിക്കുമോ അത് മിക്കവാറും ഹാങ് ആകും അല്ലെങ്കിൽ ഇത് മനോഹരമായി കൈകാര്യം ചെയ്യുമോ മെമ്മറിയുടെ ഉപയോഗം നമ്മൾ വളരെ മെമ്മറി ഊർജ്ജസ്വലമായ ഒരു ടാസ്ക് നൽകിയാൽ എന്ത് സംഭവിക്കും അത് പെട്ടെന്ന് ഹാങ് ആകുകയോ അത് തകരാറിലാകുകയോ അല്ലെങ്കിൽ പേർഫോമെൻസ് കുറയുകയോ ചെയ്യുന്നു ഓർക്കുക ഇവിടെ ഞങ്ങൾ നൽകുന്നത് ഈ ടെസ്റ്റിംഗിൽ ഞങ്ങൾ കണ്ടിഷൻ സൃഷ്ടിക്കുന്നു അത് SRS ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയതിലും അപ്പുറമാണ് അതിനാൽ ഇവിടെ മിക്ക ടെസ്റ്റുകളിലും സമയം അല്ലെങ്കിൽ വലിപ്പം ഞങ്ങൾ എത്ര വേഗത്തിൽ ഇൻപുട്ടുകൾ നൽകുന്നു അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ വലുപ്പം ഒരു യൂണിറ്റ് സമയത്തിന് കൈമാറിയ റെക്കോർഡുകളുടെ എണ്ണം ഏത് സമയത്തും പരമാവധി ഉപയോക്താക്കളുടെ എണ്ണം ഇൻപുട്ട് ഡാറ്റ വലുപ്പം മുതലായവ ഉൾപ്പെടുന്നു ഞങ്ങളുടെ നോൺ ഫംഗ്ഷണൽ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ തീർച്ചയായും സ്ട്രെസ് ടെസ്റ്റിംഗ് ബാധകമാകില്ല എത്ര ഉപയോക്താക്കളെ പിന്തുണയ്ക്കണം ഡാറ്റ കൈമാറേണ്ട നിരക്ക് എത്രയാണ് ജോലിയുടെ വലുപ്പം ഡാറ്റ വലുപ്പം തുടങ്ങിയവ എന്തായിരിക്കണമെന്ന് അത് പറഞ്ഞില്ലെങ്കിൽ സ്ട്രെസ് ടെസ്റ്റിംഗ് ബാധകമാകില്ല അതിനാൽ ഇത് സ്ട്രെസ് ടെസ്റ്റിംഗ് ന്റ്റെ ഒരു ഉദാഹരണമാണ് അതിനാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പരമാവധി 15 മൾട്ടിപ്രോഗ്രാം ചെയ്ത ജോലികൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയുക ഇപ്പോൾ 16 ജോലികൾ നൽകിയാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് സംഭവിക്കും അത് ഹാങ് ആകുമോ അല്ലെങ്കിൽ 16 ജോലികൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് പറയുമോ അല്ലെങ്കിൽ അത് ഒരു ജോലി ക്യൂവിൽ നിൽക്കുമോ പതുക്കെ ഡീഗ്രേഡഡ് പേർഫോമെൻസ് ആയി 16 ജോലി അത് കൈകാര്യം ചെയ്യുമോ അതാണ് ഞങ്ങൾ ഇവിടെ നിരീക്ഷിക്കുന്നത് ഒരു റിയൽ ടൈം സിസ്റ്റതിന് പ്രകടനം സമയ പ്രകടനം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു അതിനാൽ ഹൈ പ്രയോറിറ്റി ഇന്റെറപ്പറ്റ് ഒരേസമയം ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഡെഡ്ലൈൻ നഷ്ടപ്പെട്ടു സാധാരണയായി ഉയർന്ന പ്രയോറിറ്റി ഉള്ള ജോലികൾ ഒരു വലിയ സംഖ്യ വരാനിടയില്ല SRS ഡോക്യുമെന്റ് 3 മാത്രമേ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞേക്കാം എന്നാൽ 4 വന്നാൽ എന്ത് സംഭവിക്കും സിസ്റ്റം അത് മനോഹരമായി കൈകാര്യം ചെയ്യുമോ അതോ തകരാറിലാകുമോ അല്ലെങ്കിൽ അസാധാരണമായി പെരുമാറുമോ അതിനാൽ അതാണ് ഞങ്ങൾ ഇവിടെ പരിശോധിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള പേർഫോമെൻസ് ടെസ്റ്റിങ് ആണ് ലോഡ് ടെസ്റ്റിങ് ലോഡ് ടെസ്റ്റിംഗിൽ വ്യത്യസ്ത നിർദ്ദിഷ്ട ലോഡുകൾക്ക് കീഴിലുള്ള സിസ്റ്റത്തിന്റെ പ്രകടനം സ്വീകാര്യമാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു അതിനാൽ സ്ട്രെസ് ടെസ്റ്റിംഗും ലോഡ് ടെസ്റ്റിംഗും വ്യത്യാസപ്പെടുന്ന ഒരു പോയിന്റ് അതാണ് ലോഡ് ടെസ്റ്റിംഗിൽ റിക്വയർമെന്റ് ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയ നിർദ്ദിഷ്ട വ്യവസ്ഥകളിൽ സിസ്റ്റം പ്രകടനം ഞങ്ങൾ പരിശോധിക്കുന്നു എന്നാൽ സ്ട്രെസ് ടെസ്റ്റിംഗിൽ റിക്വയർമെന്റ് ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയിട്ടില്ലാത്ത അല്ലെങ്കിൽ റിക്വയർമെന്റ് ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയ വ്യവസ്ഥകൾക്കൊപ്പം സോഫ്റ്റ്വെയർ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു സ്ട്രെസ് ടെസ്റ്റിംഗ് നു സോഫ്റ്റ്വെയർ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു ലോഡ് ടെസ്റ്റിംഗിൽ സോഫ്റ്റ്വെയർ തൃപ്തികരമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മറ്റൊരു നിർദ്ദിഷ്ട ലോഡ് ഉപയോഗിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നു ഉദാഹരണത്തിന് ഒരു വെബ് അധിഷ്ഠിത ആപ്ലിക്കേഷനിൽ വെബ്സൈറ്റിൽ ഒരേസമയം 100 ക്ലിക്കുകളോ ഹിറ്റുകളോ സംഭവിക്കുമ്പോൾ സിസ്റ്റത്തിന് ഒരു സെക്കൻഡിൽ താഴെ റെസ്പോൺസ് സമയം ഉണ്ടായിരിക്കണമെന്ന് റിക്വയർമെന്റ് രേഖ പറയുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിച്ചേക്കാം അതിനാൽ ലോഡ് പരിശോധനയിൽ ഞങ്ങൾ അത് യഥാർത്ഥത്തിൽ ചെയ്യും ഞങ്ങൾക്ക് ഒരേസമയം 100 ഹിറ്റുകൾ വെബ്സൈറ്റിൽ സൃഷ്ടിക്കപ്പെടും അല്ലെങ്കിൽ 90 ഹിറ്റുകൾ സൃഷ്ടിച്ചേക്കാം സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു ലോഡ് ടെസ്റ്റിങ് നടത്താൻ നിരവധി ഉപകരണങ്ങൾ ലഭ്യമാണ് വളരെ പ്രശസ്തമായ ഒരു ഉപകരണം ഓപ്പൺ സോഴ്സ് ടൂൾ ആണ് J മീറ്റർ ഇത് അപ്പാച്ചെ വെബ്സൈറ്റിൽ നിന്ന് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും കഴിയും ഞങ്ങൾ ഈ ഘട്ടത്തിൽ നിർത്തുകയും അടുത്ത സെഷനിൽ തുടരുകയും ചെയ്യും